ശരി നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം മൾട്ടി കൾച്ചറലിസത്തിന് വൈകാരിക ബുദ്ധി എങ്ങനെ പരിഹാരമാകുമെന്ന് പരിശോധിക്കാം കാരണം ക്രോസ് കൾച്ചറൽ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ വൈകാരിക ബുദ്ധി വളരെ പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു അതിനാൽ മൾട്ടി കൾച്ചറൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഇ ഐ അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എങ്ങനെ സാധ്യമാകുമെന്ന് പരിശോധിക്കാം അതിനാൽ പ്രശ്നങ്ങളുടെ വൈവിധ്യം മനസിലാക്കുന്നത് പോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചർച്ചചെയ്യാൻ പോകുന്നു സാംസ്കാരിക ധാരണയുടെ സാരാംശവും നമ്മുടെ ചർച്ചയിൽ നിന്നുള്ള പ്രധാന പഠനവും ഞാൻ ആരാണ് എന്ന ഒരു പഴയ കാഴ്ചപ്പാട് സംസ്കാരത്തിന് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും എനിക്ക് എങ്ങനെ അറിയാം ഞാൻ ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു സാംസ്കാരിക ഗ്രൂപ്പിൽ നിന്നുള്ളയാളാണ് സാമൂഹിക ഗ്രൂപ്പിൽ നിന്നുള്ളയാളാണ് അതിനാൽ എന്റെ സാംസ്കാരിക ബുദ്ധിയുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ഞാൻ പരിശോധിക്കുന്നു എന്റെ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് എങ്ങനെ അറിയാം എന്റെ സാംസ്കാരിക അവസ്ഥ എന്റെ സ്വന്തം സംസ്കാരത്തെയും മറ്റ് സംസ്കാരങ്ങളെയും കുറിച്ച് എനിക്ക് എത്രമാത്രം ധാരണയുണ്ട് സാംസ്കാരിക വ്യത്യാസങ്ങളെ ഞാൻ എങ്ങനെ വിലമതിക്കും സാംസ്കാരിക സാമ്യതകൾ എങ്ങനെ അംഗീകരിക്കും സാംസ്കാരിക കഴിവുകൾ എങ്ങനെ സൃഷ്ടിക്കാം സാംസ്കാരിക കഴിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് തുടർന്ന് ചില ഫലപ്രദമായ പാഠങ്ങളുമായി നമുക്ക് ക്രോഡീകരണം നടത്താം ഒപ്പം സംഘടനയിലെ ക്രോസ് കൾച്ചർ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി വൈകാരിക ബുദ്ധി എങ്ങനെ ആകാം എന്നതും പരിശോധിക്കാം അതിനാൽ ഇതൊരു സുരക്ഷിത ഇടമാക്കി മാറ്റാൻ നമ്മൾ എന്താണ് സ്ഥാപിക്കേണ്ടതെന്ന് പര്യവേക്ഷണം ചെയ്യാം വിജയിക്കാനോ പങ്കെടുക്കാനോ ഉള്ള കഴിവ് വ്യത്യസ്ത അഭിപ്രായങ്ങളെ മാനിക്കുന്നത് ഞാൻ പ്രസ്താവന ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുമുട്ടുന്നു എന്റെ എല്ലാ ചോദ്യങ്ങളും സാധുവാണ് ഞാൻ രഹസ്യസ്വഭാവം കാത്തുസൂക്ഷിക്കുന്നു പ്രോസസ്സ് എടുക്കുന്ന വ്യക്തിയെ ഞാൻ റിസ്ക് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്റെ ക്ലാസ്സിൽ റിസ്ക് എടുക്കാൻ ഞാൻ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു ക്ലാസിൽ ആനന്ദിക്കാനും ക്ലാസ് റൂമിൽ വിനോദവും വിനോദവും ആസ്വദിക്കാൻ കഴിയുമോ ഞാൻ ഇത് എത്രനാളായി തുടരുന്നു അതിനാൽ ഇവ നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എന്നാൽ ഈ ചോദ്യങ്ങളെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത് ഇതിൽ കാണാത്തത് എന്താണ് വ്യത്യസ്ത ധാരണകളുടെ വിശ്വാസ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതിൽ നമുക്ക് പര്യവേഷണം നടത്താം ഒരേ ക്ലാസ് മുറിയിൽ ഒരേ സ്ഥലത്ത് ധാരാളം ആളുകൾ പരസ്പരം ഇടപഴകുമ്പോൾ നമ്മൾ എങ്ങനെ പരസ്പരം പുണരും നിങ്ങൾ ആരാണ് എങ്ങനെ പ്രവർത്തനം വൈവിധ്യത്തെ മാനിക്കുന്നു ഞാൻ എവിടെ നിന്നാണ് എന്റെ ഐഡന്റിറ്റി എന്താണ് അതിനാൽ ഈ സ്ലൈഡുകൾ വിമർശനാത്മകമായി പരിശോധിച്ചാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ആളുകൾ വിവിധ വസ്ത്രധാരണരീതികൾ വിവിധ പ്രവർത്തനങ്ങൾ വിവിധ പെരുമാറ്റങ്ങൾ എന്നിവ നിങ്ങൾ കണ്ടെത്തും വ്യത്യസ്ത ഭവങ്ങൾ വ്യത്യസ്ത ആംഗ്യങ്ങൾ വ്യത്യസ്ത ചിന്തകൾ വ്യത്യസ്ത സ്വഭാവങ്ങൾ അതിനാൽ ഇത് ശരിക്കും വൈവിധ്യമാർന്ന ലോകത്തിന് ഒരിടം സൃഷ്ടിക്കുന്നു അതിനാൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾ പരസ്പരം പ്രവർത്തിക്കുമ്പോൾ ഒരാളുടെ ലോക വീക്ഷണം അല്ലെങ്കിൽ പക്ഷപാതം അല്ലെങ്കിൽ അനുമാനത്തിന്റെ സ്വാധീനം എങ്ങനെ എന്ന് മനസിലാക്കാം സഹപ്രവർത്തകർ ക്ലയന്റുകൾ കമ്മ്യൂണിറ്റി ഓഹരി ഉടമകൾ എന്നിവരുൾപ്പെടെയുള്ള അവരുടെ അതിജീവനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തന പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രമോഷനുകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന അവരുടെ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ് സാംസ്കാരികമായി കഴിവുള്ള മനോഭാവം പ്രകടിപ്പിക്കുന്നതിന്റെ പ്രയോജനത്തെക്കുറിച്ചും നിങ്ങൾ പഠിക്കുമോ സംഘടനയിലെ പെരുമാറ്റങ്ങൾ നമ്മൾ സാംസ്കാരിക കഴിവ് തുടർച്ചയായി പര്യവേക്ഷണം ചെയ്യും ഓരോ വ്യക്തിയുടെയും സാംസ്കാരിക ഘടകങ്ങൾ പരിശോധിക്കും അത് ശാക്തീകരിക്കും അത് ശരിയാകും അവിടെ ഒരു മതിപ്പ് നൽകും അവരുടെ സാംസ്കാരിക ഘടക വേദിയിൽ അവർ എവിടെയാണ് നിലകൊള്ളുന്നത് എന്നറിയും ഇത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ക്രമീകരണങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നതിനും സാംസ്കാരിക കഴിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ചർച്ചചെയ്യാനും നമ്മെ സഹായിക്കും അതിനാൽ ഉൾകൊള്ളുന്ന സന്ദേശം എന്താണ് സാംസ്കാരിക കഴിവുകൾ പരസ്പര ബന്ധം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാൻ തയ്യാറെടുക്കാം സാംസ്കാരിക വൈദഗ്ധ്യം എങ്ങനെയാണ് സാംസ്കാരിക കഴിവ് യഥാർത്ഥത്തിൽ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് തുല്യമാണ് എന്നതിന് വഴികളുണ്ട് കൂടാതെ വ്യക്തിഗത തലത്തിലും സംഘടനാ തലത്തിലും മുഴുവൻ സിസ്റ്റം തലത്തിലും സാംസ്കാരിക കഴിവ് നിർണ്ണയിക്കുന്നത് പരിശോധിക്കാം അതിനാൽ വ്യക്തിഗത തലത്തിൽ സാംസ്കാരിക കഴിവിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടുകളും സാംസ്കാരിക ഐഡന്റിറ്റികളും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു സാംസ്കാരിക താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ലോക റേറ്റിംഗിൽ നിങ്ങൾ എവിടെയാണ് നിലകൊള്ളുന്നത് അതിനാൽ സന്തോഷ സൂചികയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തികവികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പര്യവേക്ഷണം ചെയ്യാൻ കഴിയും മറ്റുള്ളവരുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾക്ക് അമേരിക്കക്കാരെ ശരിക്കും ഇഷ്ടമാണോ നിങ്ങൾക്ക് ശരിക്കും ചൈനക്കാരെ ഇഷ്ടമാണോ നിങ്ങൾക്ക് ശരിക്കും ജപ്പാൻക്കാരെ ഇഷ്ടമാണോ പിന്നെ എന്തിനാണ് ആരാണ് ശ്രേഷ്ഠൻ ആരാണ് താഴ്ന്നത് എന്നറിയാൻ ഒരു കുതിരപ്പന്തയം നടക്കുന്നത് അതിനാൽ നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യുകയും പരസ്പരം ആലിംഗനം ചെയ്യുന്നതിന് പകരം ഉൾക്കൊള്ളുന്നതിന് പകരം നമ്മുടെ ശ്രേഷ്ഠതയെ പ്രതിഫലിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ പരസ്പരം സംസ്കാരങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മയ്ക്ക് കാരണമാകുന്ന സാംസ്കാരിക സംഘട്ടനങ്ങൾക്കും വംശീയതയ്ക്കും അത് കാരണമാകുന്നു ഈ സാംസ്കാരിക സംഘട്ടനങ്ങൾ വംശം ഭാഷ മതം മുതലായവയെ അടിസ്ഥാനമാക്കിയുള്ളതാകാം അതിനാൽ സമൂഹം ക്രമത്തിലല്ലെങ്കിൽ ആർക്കാണ് സന്തുലിതാവസ്ഥയെ കൊണ്ടുവരാൻ കഴിയുക അതിനാൽ സാംസ്കാരിക വൈദഗ്ധ്യത്തിന്റെ ഈ തിരിച്ചടിയിൽ നിന്ന് സംഘടനകൾക്ക് എങ്ങനെ കഷ്ടപ്പാട് ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കമ്മ്യൂണിറ്റി പാരമ്പര്യം മാനദണ്ഡങ്ങൾ സംസ്കാരം പ്രാക്ടീസ് വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുക അങ്ങനെ ഒരു വ്യത്യസ്ത സംസ്കാരത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെന്ന നിലയിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ വിദഗ്ദ്ധ മാനേജരുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ഈ പൊരുത്തക്കേടുകൾ ചർച്ചചെയ്യുന്നു ഇന്ന് നിങ്ങൾ ഇന്ത്യയിലെ ടിസിഎസിൽ ജോലിചെയ്യുന്നു നാളെ നിങ്ങളെ അമേരിക്കയിൽ പോസ്റ്റുചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇന്ത്യൻ മൂല്യങ്ങൾ അമേരിക്കയിലെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല നിങ്ങൾ അവരെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അവിടെ നന്നായി പ്രവർത്തിക്കുന്നതെന്താണെന്ന് അറിയേണ്ടതുണ്ട് അതായത് ഇതാണ് ജോലിയിലെ ക്രോസ് കൾച്ചറൽ കഴിവിന്റെ സൂചന എങ്ങനെ ഉൾക്കൊള്ളാം എങ്ങനെ പൊരുത്തപ്പെടാം മറ്റ് സംസ്കാരങ്ങളുമായി എങ്ങനെ സഹകരിക്കാം നിങ്ങളുടെ പുനഃസ്ഥാപന സാധ്യതകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പൊരുത്തപ്പെടുത്തൽ ശേഷി എന്താണ് നിങ്ങളുടെ സഹന സംവിധാനം എന്താണ് അതിനാൽ ഇതും സാംസ്കാരിക യോഗ്യതാ രീതി മുഴുവൻ സിസ്റ്റത്തെയും പരിപാലിക്കുന്നു ഉദാഹരണങ്ങൾക്കായി പറയുക നിങ്ങളുടെ അടിയന്തിരാവസ്ഥ നിങ്ങളുടെ സംസ്കാരം യുനിസെഫ് യുഎൻഡിപി പോലുള്ള നിങ്ങളുടെ ദൌത്യങ്ങൾ ലോകമെമ്പാടുമുള്ള മറ്റുള്ളവരുടെ വികസനത്തിനായി പകലും രാത്രിയും പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളുണ്ട് അതിനാൽ നിങ്ങൾക്കറിയാവുന്ന ക്രോസ് കൾച്ചറൽ യോഗ്യതയുള്ള ഒരു വ്യക്തിയിൽ ആർക്കാണ് മികച്ച അന്തർദ്ദേശീയ ഏജൻറ് ആകാൻ കഴിയുക ആരാണ് കർക്കശക്കാരൻ അല്ലാത്തത് മറ്റ് സംസ്കാരം സ്വീകരിക്കുന്നതിന് കൂടുതൽ വഴക്കമുള്ളതിനാൽ അത് അദ്ദേഹത്തിന്റെ ദൌത്യങ്ങളിലും ലക്ഷ്യങ്ങളുടെ ചുമതലയിലും കൂടുതൽ ഫലപ്രദമാകും അതിനാൽ ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്നുള്ള പ്രധാന പഠനം ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒരു ക്രോസ് കൾച്ചറൽ എന്റർപ്രൈസസിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ആഗോളവൽക്കരണത്തിനുശേഷം നമ്മൾ താമസിക്കുന്നത് ഒരു ആഗോള ഗ്രാമത്തിലാണ് എംഎൻസി എല്ലായിടത്തും പ്രവർത്തിക്കുന്നു ബാംഗ്ലൂർ മുതൽ ബാഗൽപൂർ വരെ പട്ന മുതൽ ഭുവനേശ്വർ വരെ എന്ന് പറയാം എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു ബഹുരാഷ്ട്ര കമ്പനിയെയോ ഒരു മൾട്ടിനാഷണൽ എന്റർപ്രൈസസിനെയോ കാണാൻ കഴിയും അതിനാൽ ഈ കമ്പനികൾ എങ്ങനെ നിലനിൽക്കും ആളുകൾ എങ്ങനെ അതിജീവിക്കും അതിനാൽ നിങ്ങളുടെ ജോലി പെരുമാറ്റം ഫലപ്രദമാകുന്നതിന് നിങ്ങൾ ഒരുതരം ക്രോസ് കൾച്ചറൽ ഗ്രാഹ്യവും അവബോധവും വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സാംസ്കാരികമായി കഴിവുള്ളവരാകുക എന്നത് ഒരു അന്തിമ ലക്ഷ്യമല്ല അതിനാൽ നിങ്ങളുടെ ക്രോസ് കൾച്ചറൽ യോഗ്യതയിൽ നിങ്ങൾ എങ്ങനെ വളരുന്നുവെന്നതിന്റെ തുടർച്ചയാണത് എ ബി സി ഡി ഇ അടുത്ത യാഥാർത്ഥ്യം നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് അതിനാൽ സാംസ്കാരിക സന്ദർഭത്തെക്കുറിച്ചുള്ള സാംസ്കാരിക ധാരണ വളരെ പ്രധാനമാണ് കാരണം സംസ്കാരം മനുഷ്യനിർമ്മിതമായ ഒരു അന്തരീക്ഷമല്ലാതെ മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഇത്രയധികം മക് ഡൊണാൾഡ് ആക്രമിക്കപ്പെടുന്നത് കാരണം ഈ സംസ്കാരം പ്രാദേശിക ജനത വിലമതിക്കുന്നില്ല അതിനാൽ മക് ഡൊണാൾഡ് പ്രാദേശിക സംസ്കാരങ്ങളുമായി പൊരുത്തപ്പെടണം അതിനാലാണ് നിരവധി മികച്ച ഓഫറുകൾ പലതവണ ലഭിക്കുന്നത് അതിനാൽ ഒരു ബോക്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി എല്ലാ സബ്സിഡി നിരക്കിലും വെജ് ഇനങ്ങളുടെ ബോക്സ് വിതരണം ചെയ്യപ്പെടുന്നു മക് ഡൊണാൾഡും കെഎഫ്സിയും എല്ലാത്തരം ബിസിനസ്സുകളിലും ഏർപ്പെടുന്നു അത് നോൺ വെജ് അല്ലെങ്കിൽ ചിക്കൻ മാത്രമല്ല എന്ന് അറിയിക്കാനാണിത് അതാണ് ബിസിനസിന്റെ തന്ത്രം അതാണ് ക്രോസ് കൾച്ചറൽ കഴിവുകളിൽ പ്രകടമാകുന്ന പ്രതിഭകളുടെ തന്ത്രങ്ങൾ ഈ വർക്ക് ഫ്രെയിം വർക്കിന് നമ്മുടെ സ്വന്തം സാംസ്കാരിക ഫിൽട്ടർ മാറേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാനും കഴിയും മറ്റ് സംസ്കാരങ്ങളുമായി പൊരുത്തപ്പെടുന്ന നിമിഷം നിങ്ങൾ അറിയും നിങ്ങളുടെ സ്വന്തം സംസ്കാരങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും അതിനാലാണ് ഇപ്പൊൾ തുടർച്ചയായി ഇന്ത്യൻ സമൂഹങ്ങളിൽ പരിവർത്തനം നടക്കുന്നത് വിവാഹം മുതൽ ജോലിസ്ഥലത്തെ പെരുമാറ്റം വരെ എല്ലായിടത്തും ആഗോളവൽക്കരണത്തിനുശേഷം മാതാപിതാക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള പ്രണയ വിവാഹത്തിന് സമ്മതിക്കുന്നു എങ്കിലും മുൻകാലങ്ങളിൽ പ്രണയ വിവാഹത്തെ ഇന്ത്യൻ സംസ്കാരങ്ങൾ വിലമതിച്ചിരുന്നില്ല അനുവദിച്ചിരുന്നില്ല രണ്ടാമത്തെ കാര്യം സ്ഥിരമായ പാരമ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാംസ്കാരിക യോഗ്യതാ പ്രവർത്തനങ്ങളിലേക്ക് ചില സമീപനങ്ങൾ കടന്നുവരുന്നു എന്നതാണ് അതിനാൽ ഒരാളുടെ സംഘടനയിൽ വിജയം കൈവരിക്കാത്ത ഒരു പ്രത്യേകതരം പെരുമാറ്റരീതികളോ പ്രവർത്തനത്തിന്റെ സ്ഥിരമായ രീതിയോ എത്രകാലം നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയും നിങ്ങൾക്ക് ഇത് എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയും അതിനാൽ ഈ സ്ഥിരസങ്കൽപം എങ്ങനെ ആകാം എന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചെയ്യുന്നതിന്റെ സ്വാഭാവിക ഭാഗമാണ് സ്റ്റീരിയോടൈപ്പിംഗ് എന്നാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുമോ ഇത് കുറയ്ക്കാൻ കഴിയുമോ നമുക്ക് ഇത് പരിഷ്ക്കരിക്കാനാകുമോ കഴിയും നമ്മുടെ സംസ്കാരം മാറ്റുന്നതിലൂടെയും ഒരു പുതിയ സംസ്കാരം അവതരിപ്പിക്കുന്നതിലൂടെയും അത് സാധ്യമാണ് അതെന്താണ് നമ്മുടെ പെരുമാറ്റത്തിന്റെ ഘടന നമ്മുടെ ആശയങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ മുതലായവ മാറ്റുന്നതിലൂടെ അത് സാധ്യമാണ് അതിനാൽ സംസ്കാരം പഠിക്കാൻ കഴിയുമെന്നതിനാൽ അതിനെ പഠിച്ചതും പങ്കിട്ടതുമായ പെരുമാറ്റരീതികൾ വിശ്വാസങ്ങളുടെ സ്വഭാവം എന്നിങ്ങനെ അറിയപ്പെടുന്നു അതിനാൽ പഠിക്കാൻ കഴിയുന്ന എന്തും മാറ്റാനും കഴിയും ഒരു പ്രത്യേക സമൂഹത്തിൽ നിലനിൽക്കുന്ന മൊത്തം സംസ്കാരം ഒരാളുടെ മനോഭാവത്തെയും അറിവിനെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ മിക്കപ്പോഴും മിക്കപ്പോഴും നമ്മുടെ അറിവ് പ്രധാനമാണ് ക്ഷമിക്കണം നമ്മുടെ വൈജ്ഞാനിക അറിവിനേക്കാളും കഴിവുകളേക്കാളും നമ്മുടെ സംസ്കാരം പ്രധാനമാണ് അതിനാൽ സാംസ്കാരിക പരിഗണനകളുണ്ട് വംശീയത വംശം ഉത്ഭവ രാജ്യം ലിംഗഭേദം പ്രായം സാമൂഹിക സാമ്പത്തിക നില പ്രാഥമിക ഭാഷ ഇംഗ്ലീഷ് പ്രാവീണ്യം എന്നിവ മനസിലാക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് ആഗോള ഭാഷയായി അറിയപ്പെടുന്നു അതിനാൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ പ്രധാന്യം നൽകുന്നു അതേസമയം സമൂഹങ്ങൾ സംഘർഷം അക്രമം ആക്രമണം എന്നിവയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു മതപരമായ പഠിപ്പിക്കലുകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് ആത്മീയതയുടെ രൂപത്തിലുള്ള മത പാഠങ്ങളും സാക്ഷരതാ നിലവാരവും നാം അറിയണം അതിനാൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ കഴിയും അതിലൂടെയുള്ള വിദ്വേഷ വികാരങ്ങളും ലൈംഗിക ബോധ്യങ്ങളും പൊതുവായ പൊരുത്തക്കേടുകൾക്കിടയിൽ വളരെ കർക്കശമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ജോലിസ്ഥലത്ത് ലൈംഗിക പീഡനം ഉണ്ടാകുന്നത് സാംസ്കാരിക പരിഗണനകളുടെ അഭാവത്തിൽ നിന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നത് അതിനാൽ ഇത് കുറയ്ക്കാനും കഴിയും എന്നാൽ ക്രോസ് കൾച്ചറൽ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം തൊഴിൽ പ്രശ്നം പോലും സമീപകാലത്ത് വലിയതായി ഉയർന്നുവരുന്നു വിലകുറഞ്ഞ തൊഴിൽ ലഭ്യമാകുന്നത് കാരണം തങ്ങളുടെ ഉൽപാദന യൂണിറ്റുകൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതിനാൽ അമേരിക്കക്കാർ ഇപ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നു അതിനാൽ ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങൾ ശാരീരിക ശേഷി കുടിയേറ്റം ക്രിമിനൽ നീതി രാഷ്ട്രീയ കാലാവസ്ഥ എന്നിവയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എല്ലായിടത്തും നമ്മുടെ സാംസ്കാരിക ചട്ടക്കൂടിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് അറിയാവൂ സാംസ്കാരിക മഞ്ഞുമല ഒരു മനുഷ്യ വ്യക്തിത്വത്തെപ്പോലെയാണ് ഞങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പത്തിലൊന്ന് ഭാഗം മാത്രമേ നിങ്ങൾക്ക് അറിയൂ അതുപോലെ തന്നെ നമ്മുടെ മിക്ക സാംസ്കാരിക ധാരണകളും ആഴക്കടലിലെ വെള്ളത്തിൽ മറഞ്ഞിരിക്കുന്നത് പോലെയാണ് അത് കണ്ടെത്തേണ്ടതുണ്ട് സാംസ്കാരിക നിയന്ത്രണ അതിർത്തി ചട്ടക്കൂടുകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ കണ്ടെത്തുന്നത് നമ്മുടെ മനോഭാവവും പെരുമാറ്റവും മനസ്സിലാക്കുന്നത് പോലെയാണ് അതിനാൽ സാംസ്കാരിക അവബോധം വർദ്ധിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അത് ക്രോസ് കൾച്ചറൽ കഴിവുകളുടെ വികാസത്തിലേക്ക് നയിക്കും അതിനാൽ രൂപരേഖയിലെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാംസ്കാരിക ഐഡന്റിറ്റികളെക്കുറിച്ച് ചിന്തിക്കുക ആ രണ്ട് പ്രധാന സാംസ്കാരിക ഐഡന്റിറ്റികൾ ഒഴികെ മറ്റൊരാൾക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് നടിക്കുന്നു ഈ രണ്ട് പ്രധാന സാംസ്കാരിക ഐഡന്റിറ്റികൾ നെഗറ്റീവ് രീതിയിൽ ചർച്ച ചെയ്തതായി കരുതുക അതിനാൽ ഇത്തരത്തിലുള്ള ചർച്ചയും ആലോചനയും മുഖേന നമ്മൾ ഒരു മികച്ച ധാരണ രൂപപ്പെടുത്തുന്നു ലോകത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സാംസ്കാരിക ധാരണയും ഇത് പറയും അതിനാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അനുഭവങ്ങൾക്കായി തുറന്നി മനസ്സ് ആണെങ്കിൽ നിങ്ങൾ മാറ്റങ്ങൾ സ്വീകരിക്കും നിങ്ങൾ ലോകത്തെ മുഴുവനും സ്വീകരിക്കും അല്ലാത്തപക്ഷം നിങ്ങൾ സാംസ്കാരികമായി വളരെ കർക്കശമാണെങ്കിൽ അത് നിങ്ങളെ നിയന്ത്രിക്കുകയും വളരെ ചെറിയ ചട്ടക്കൂടിനുള്ളിൽ നിങ്ങളെ പരിമിതപ്പെടുത്തുകയും ചെയ്യും സാംസ്കാരികമായി അധിഷ്ഠിതമായ ഒരു ഘടകം നമ്മുടെ വിശ്വാസ വ്യവസ്ഥകളെ നേരിട്ട് ബാധിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു ഇത് അനുമാനങ്ങൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാര രീതികൾ തീരുമാനമെടുക്കൽ സംഘർഷ പരിഹാരങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ സാംസ്കാരിക ധാരണയിലൂടെ സാധ്യമല്ലാത്തത് എന്താണ് അത് ഒരു പോംവഴി നൽകുന്നു അതിനാൽ സംസ്കാരങ്ങൾ മനുഷ്യന്റെ ഇടപെടലുകളുടെയും ഇടപാടുകളുടെയും മുഴുവൻ തലങ്ങളെയും ലോകവുമായുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തികളുടെ ധാരണകളെയും സംരക്ഷിക്കുന്നുവെന്ന് നാം പലപ്പോഴും പറയുന്നു ഉദാഹരണത്തിന് പ്രകൃതി സ്ഥാപനങ്ങൾ ആളുകൾ വസ്തു എന്നിവ വിദ്യാർത്ഥികൾ പരസ്പരം തർക്കിക്കുന്നത് ഒഴിവാക്കുന്നതിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ഈ വാദങ്ങളും വൈരുദ്ധ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിനാൽ പരസ്പരം മനസിലാക്കുന്നതിനും പരസ്പരം സംസ്കാരങ്ങൾ കൈമാറുന്നതിനും പരസ്പരം സംസ്കാരം ആഘോഷിക്കുന്നതിനും ഇത് വളരെ അത്യാവശ്യമാണ് അത് മൾട്ടി കൾച്ചറൽ മതത്തിനോ ക്രോസ് കൾച്ചർ അഡാപ്റ്റേഷനുകൾക്കോ മികച്ച ഗ്രാഹ്യം നൽകും വിവേചനം കാണിക്കാൻ നാം എങ്ങനെ പഠിക്കുന്നുവെന്നത് മുൻവിധികൾ സൃഷ്ടിക്കുന്നത് അത് നമ്മുടെ സംസ്കാരം മാത്രമാണ് മുൻവിധിയുടെയും വിവേചനത്തിന്റെയും അടിസ്ഥാന കാരണം സംസ്കാരമാണ് ഇത് ഒരു സംസ്കാരത്തിന്റെ രണ്ട് പാർശ്വഫലങ്ങളാണെന്ന് നാം പലപ്പോഴും പറയാറുണ്ട് ഇത് പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മുടെ പരിശീലനവും സാമൂഹ്യവൽക്കരണവും മൂലമാണ് പുറത്തുവരുന്നത് പക്ഷേ മുൻവിധികൾ എന്ന് വിളിക്കുന്ന കാരണങ്ങളൊന്നുമില്ലാതെ നമ്മൾ ആളുകളെ വെറുക്കുന്നുവെന്ന് നാമറിയുന്നില്ല യാതൊരു കാരണവുമില്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് നിഷേധാത്മകവികാരങ്ങൾ നമ്മൾ വെച്ചുപുലർത്തുന്നു കാരണം അങ്ങനെ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും ചുരുക്കാം അതിനാൽ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറേണ്ട അവസ്ഥയാണ് നമ്മൾ ഒരു ചക്രത്തിനേ പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരരൂപം സ്റ്റീരിയോടൈപ്പ് പിന്തുടരുന്നു ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക പ്രദേശം ഒരു പ്രത്യേക തരം ഭക്ഷണം കഴിക്കുന്നതിനോട് യോജിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തെക്കുള്ള ആളുകളിൽ നിങ്ങൾ കണ്ടെത്തും അവർ പ്രഭാതഭക്ഷണത്തിൽ ഡാലും സാംബാറും ആസ്വദിക്കുന്നവരാണ് എന്നാൽ നിങ്ങൾ വടക്കുഭാഗത്തുള്ള മലകൾ നിറഞ്ഞ ഇടത്തേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ പറാത്ത എന്നും അച്ചാർ അല്ലെങ്കിൽ ഡാഹി എന്നും വിളിക്കുന്ന തൈര് എന്നിവ ആളുകൾക്ക് ആസ്വദിക്കുന്നു അതിനാൽ ഒരു പ്രത്യേക സംസ്കാരത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണശീലങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്നാൽ സാംസ്കാരിക സ്വാംശീകരണം സാംസ്കാരിക ഉൾകൊള്ളൽ എന്നിവ എത്തുന്ന നിമിഷം ആളുകൾ ഇവ പരസ്പരം കൈമാറാൻ ശ്രമിക്കുന്നു ഈ പ്രക്രിയയിൽ ഇപ്പൊൾ ആളുകൾ ദാൽ സാമ്പാർ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് ഒരു സാധാരണ ദക്ഷിണേന്ത്യൻ പ്രഭാതഭക്ഷണമാണ് ഇത് ഒരു ഇന്ത്യൻ വിഭവമായി മാറി ഇന്ത്യ മുഴുവൻ ഇത് ശീലിക്കുന്നു നിങ്ങൾക്ക് ദോശയെക്കുറിച്ച് സംസാരിക്കാം ഒരു ദിവസത്തിൽ മൂന്ന് നേരവും കഴിക്കാവുന്ന ഒരു വിഭവമാണിത് നിങ്ങൾക്ക് ഇത് ഒരു പ്രഭാതഭക്ഷണമായി എടുക്കാം നിങ്ങൾക്ക് ഉച്ചഭക്ഷണമായി എടുക്കാം നിങ്ങൾക്ക് ഇത് അത്താഴമായി എടുക്കാം അതിനാൽ എല്ലാവരും സുഖകരമാണ് എന്നും എല്ലാവരും അതിന്റെ പ്രയോജനവും മനസ്സിലാക്കി അത് സ്വീകരിച്ചു സാംസ്കാരിക സ്വാംശീകരണം ഇങ്ങനെയാണ് പക്ഷേ അത് പരിശീലിക്കുന്നത് ഞാൻ തെക്ക് നിന്നുള്ള ഒരു വ്യക്തിയാണ് ദോശയല്ലാതെ മറ്റൊന്നും ഞാൻ കഴിക്കില്ല അതിനെയാണ് നാം സാംസ്കാരിക ഘടകങ്ങളെന്ന് വിളിക്കുന്നത് അത് ഒരു മാനസിക പ്രോഗ്രാമിംഗ് ആണ് അത് എല്ലായ്പ്പോഴും കാഠിനമാണ് മാറ്റമില്ലത്തത് അതിനാൽ ഇത് മാറ്റത്തിനുപകരം സ്ഥിരരീതി സൃഷ്ടിക്കും അതിനാൽ കണ്ടീഷനിംഗിന്റെ ചാക്രികത സൃഷ്ടിക്കപ്പെടുന്നു അന്തരീക്ഷം സ്വാധീനിക്കുന്നു അത് കൂട്ടങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾക്ക് നമ്മെ ഒരുക്കുന്നു ഇത് നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു ഞാനിതിൽ കൊള്ളാം എന്നും നിങ്ങൾ ഇതിൽ മോശമാണെന്ന് എന്നും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പ് സ്വഭാവത്തെയും തുടർച്ചയായ ചാക്രികമായി ശക്തിപ്പെടുത്തിയ സ്ഥിരരീതികളെയും ന്യായീകരിക്കുന്നു അതിനാൽ ഇവ സാംസ്കാരിക പൂർവമായ പ്രീ കൾച്ചറൽ മുൻവിധിയുടെ ചില ഫലങ്ങളാണ് ഒരു ക്ലാസ് വിഭജനത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണിത് ക്ലാസ് സംഘർഷം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സംഘർഷം അതിനാൽ ഈ വീഡിയോ യൂ ട്യൂബിലോ ഗൂഗിൾ തിരയലിലോ ലഭ്യമാണ് അതിനാൽ നിങ്ങൾക്ക് പിന്നീട് ശ്രമിക്കാനും കാണാനും ഈ സാഹചര്യം എങ്ങനെയെന്ന് അറിയാനും കഴിയുമോ കണ്ടീഷനിംഗ് ചക്രത്തിൽ നിന്ന് എങ്ങനെ പൊരുത്തക്കേടുകൾ പുറത്തുവരുന്നുവെന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും ഒപ്പം ആ വീഡിയോകളിൽ സംഭവിക്കുന്ന സംഭവങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാകും തുടർന്ന് ഈ വിഷയം പരിശോധിച്ചതിനുശേഷം അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കാം അതിനുള്ള പരിഹാരം എന്തായിരിക്കും ശരി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിട്ട്പോയതായി തോന്നിയതിനെക്കുറിച്ച് ചർച്ചചെയ്യാൻ കഴിയുന്ന മാർഗമാണോ ഇത് സൈക്കിൾ എങ്ങനെ കളിച്ചു ഇന്ന് സമൂഹത്തിൽ ചക്രം കളിക്കുന്നത് നിങ്ങൾ എങ്ങനെ കാണുന്നു കണ്ടീഷനിംഗ് ചെയ്യുന്ന ഈ ചക്രം നിങ്ങൾ എങ്ങനെ തകർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യും അതിനാൽ ഇതെല്ലാം വീഡിയോ ക്ലിപ്പുകളെക്കുറിച്ചാണ് നിങ്ങൾക്ക് അതിലൂടെ പോകാം സ്വയം മനസിലാക്കാം ശേഷം ക്രോസ് സാംസ്കാരിക ഇടപെടലുകളെക്കുറിച്ച് ചില ധാരണകൾ കൊണ്ടുവരാനും കഴിയും ഇത് മനഃശാസ്ത്രത്തിൽ ഇന്ന് എന്നതിൽ വളരെക്കാലം മുമ്പ് പ്രസിദ്ധീകരിച്ച ലേഖനമാണെന്ന് കാണിക്കുന്നു നാമെല്ലാവരും അറിയാതെ തന്നെ എല്ലായ്പ്പോഴും സ്ഥിരരീതികൾ സ്റ്റീരിയോ ടൈപ്പ് ഉപയോഗിക്കുന്നു നാം സമത്വത്തിന്റെ ശത്രുവിനെ കണ്ടുമുട്ടി എന്നാൽ ശത്രു നമ്മോടൊപ്പമുണ്ട് അതിനാൽ ധാരാളം നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ട് നമ്മളാണ് പരിശോധിച്ച് അതിന്റെ വഴി കണ്ടെത്തുകയും നല്ല കാര്യങ്ങളിൽ മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടത് ഗ്രൂപ്പുകൾക്കിടയിലെ തടസ്സങ്ങൾ കുറയ്ക്കുന്ന സംസ്കാരങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്ന ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്ന നല്ല കാര്യങ്ങൾ കണ്ടെത്താനും കണ്ടുപിടിക്കാനും വേണ്ടി അതിനാൽ കൂടുതൽ ശ്രദ്ധാലുവാകുന്നത്ത് വഴി ചക്രം തകർക്കുക അതിനാൽ ഇതിനെ സോഷ്യൽ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത് പരിശോധിക്കാം സോഷ്യൽ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ അവരുടെ വാഗ്ദാന തെളിവുകളെക്കുറിച്ച് അവർ സംസാരിക്കുന്നു ഇത് മതിയായ പ്രചോദനത്തോടെ വൈജ്ഞാനിക ഗവേഷണങ്ങളും പരിശ്രമങ്ങളും സൂചിപ്പിക്കുന്നു വ്യക്തികൾക്ക് അവർ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് എന്നതിലുപരിയായി സവിശേഷ ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിയുന്നു അതുകൊണ്ടാണ് ഗ്രൂപ്പ് രൂപീകരിക്കുന്ന പ്രക്രിയയിൽ നാം നമ്മുടെ വ്യക്തിഗത മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇത് പ്രക്രിയയിലെ ധാരാളം സ്ഥിരരീതി അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പ് മുൻവിധികളുടെയും വിവേചനങ്ങളുടെയും മൂലകാരണമായി മാറുന്നു എന്നാൽ ഈ സ്ഥിരരീതിയുടെ ആഘാതം എങ്ങനെ കുറയ്ക്കാം അതിനാൽ ഈ ശ്രമങ്ങൾ കാലക്രമേണ സ്റ്റീരിയോടൈപ്പുകളുടെ ശക്തി കുറയ്ക്കുമെങ്കിലും മാറ്റത്തിനായി നിങ്ങൾ എത്രത്തോളം പ്രതിജ്ഞാബദ്ധരാണെന്ന് എന്നത് പ്രധാനമാണ് മാറ്റത്തിന് പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ എത്ര ദൂരം വരെ ചേർന്ന് പ്രവർത്തിക്കും നിങ്ങളുടെ പെരുമാറ്റരീതികളിലൂടെ പ്രകടമാകുന്നതിനുമുമ്പ് അവ മറഞ്ഞിരിക്കുന്ന മനോഭാവം നിരീക്ഷിക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും പിശകുകളും ഉൾകൊള്ളുന്ന ഒരു കുറിപ്പ് ഉണ്ടാക്കാമോ അതിനുശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക അടുത്തത തവണ ഞാൻ അത് ചെയ്യില്ലെന്ന് ഉറപ്പിക്കുക അതിനാൽ എല്ലായ്പ്പോഴും തെറ്റുകളുടെയും മറ്റുള്ളവരുടെ സ്വീകാര്യമല്ലാത്ത പെരുമാറ്റത്തിന്റെയും ഒരു ഡയറി പരിപാലിക്കുക നമ്മുടെ സ്ഥിരരീതികൾ സ്റ്റീരിയോടൈപ്പുകൾ കുറയ്ക്കുന്നതിന് ചില ചിന്തകൾ നൽകാം സമത്വവാദിയാകാൻ ബോധപൂർവമായ ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ അത് ഒരാളെ നയിച്ചേക്കാം അല്ലെങ്കിൽ ഒരിക്കൽ ചങ്ങാതിമാരുടെ സർക്കിളും മറ്റ് ഗ്രൂപ്പുകളുടെ അറിവും വർദ്ധിപ്പിക്കും ചില കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് ചിലർ പറയുന്നു എന്നാൽ എൻറെ ജീവിതത്തിൽ നിരവധി ചോദ്യം ചെയ്യലുകൾ അവരുടെ സ്വന്തം പരിശ്രമത്താൽ അധിക ശ്രമമായി മാറുന്നത് ഞാൻ കണ്ടു സോണി ടെലിവിഷനിൽ പ്രശസ്ത ഹാസ്യനടനായ കപിൽ ശർമയുടെ ഷോ ഒരു ജഡ്ജ് മിസ്റ്റർ നവാജോയ്ത് സിംഗ് സിദ്ദു ആയി ഇരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടു ഈ വ്യക്തി വളരെ ലജ്ജ ഉള്ള അന്തർമുഖനായിരുന്ന അദ്ദേഹം ടെലിവിഷൻ റിപ്പോർട്ടർമാരെ പോലും ഒഴിവാക്കുമായിരുന്നു കാരണം അദ്ദേഹം പത്രക്കുറിപ്പ് നൽകാൻ പോയാൽ അവർ പത്രക്കാർ നിരവധി കാര്യങ്ങൾ ചോദിക്കും അതിനാൽ ഇത് അദ്ദേഹത്തിന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ അവൻ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു നാണിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മനഃപൂർവം പ്രസ് റിപ്പോർട്ടർമാരെ ഒഴിവാക്കുന്നത് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രചാരണം നടത്തുന്നുവെന്ന് നിങ്ങൾ നോക്കുക അദ്ദേഹം എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഓരോ ഷോയും അയാൾ വളരെ ആവിഷ്കരിക്കുന്നതും വളരെ പദപ്രയോഗമുള്ളതുമായ ഒരു വ്യക്തിയെപ്പോലെയാണ് അതിനാൽ വളരെയധികം പരിശ്രമിക്കുന്നതിലൂടെ ഒരാൾക്ക് മാറാൻ കഴിയും അതാണ് എന്തും സാധ്യമാണ് ശ്രമങ്ങളാൽ ഏത് മാറ്റവും സാധ്യമാണ് സാംസ്കാരിക ഉൽപാദന ക്ഷമതയെ പരിപോഷിപ്പിക്കേണ്ട എല്ലായിടത്തും വ്യവസായ ഉൽപാദന യൂണിറ്റുകളായാലും ആരോഗ്യമേഖലയിലെ സേവന മേഖലകളായാലും സാംസ്കാരിക കഴിവ് നിങ്ങളുടെ ജോലിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഡോക്ടറാണ് നാളെ നിങ്ങൾ അമേരിക്കയിൽ പോയി ആളുകളെ ചികിത്സിക്കുന്നു ലോകമെമ്പാടും ഉള്ളവരെ ചികിത്സിക്കുന്നു ഞാൻ ഇന്ത്യക്കാരെ മാത്രമെ പഠിപ്പിക്കുകയുള്ളു അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരെ മാത്രമേ സേവിക്കുകയുള്ളൂ എന്നും പറയരുത് അതിനാൽ അത് ഒരാളുടെ മനോഭാവമായിരിക്കരുത് അതിനാൽ ഇത് നമ്മുടെ ജോലി സംസ്കാരങ്ങളിൽ എങ്ങനെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് നോക്കാം ഇത് വളരെ മൃദുവായ ഒരു നിർമ്മിതിയാണ് കാരണം ഇത് നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഇത് ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ളതല്ല നിർദ്ദിഷ്ട ഫലങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടില്ല ഇത് പ്രവർത്തിപ്പിക്കാൻ വളരെ പ്രയാസവുമാണ് അതിനാൽ വികസിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാൽ സമാനതകളിലുള്ള ധാരണകളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അതിനാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ആളുകളെ മനസ്സിലാക്കുമ്പോൾ ഒരാൾക്ക് എളുപ്പത്തിൽ വികസിപ്പിക്കാൻ കഴിയും ഒപ്പം നിങ്ങളുടെ ക്രോസ് കൾച്ചറൽ കഴിവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് സ്വയം ഒരു ഭാഗമാക്കുക ഒരു ശക്തിയിൽ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്നാൽ സാംസ്കാരിക കഴിവ് വിവിധ രാജ്യങ്ങളിലെ വിവിധ ജനസംഖ്യാശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ കണക്ക് ഇവിടെ നോക്കിയാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വിവിധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി കൈകോർത്ത് പ്രവർത്തിക്കുന്നതായി കാണാം ഇന്നത്തെ ജോലിസ്ഥലത്തെ കമ്മ്യൂണിറ്റിയിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങളോട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു ഇത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് ഇന്ത്യ ജപ്പാൻ കൊറിയ ചൈന എന്നിങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന ഏതൊരു എംഎൻസിയും ഇപ്പോൾ എംഎൻസി എന്നാൽ ബഹു സംസ്കാരം എന്നാൽ ബഹു രാജ്യ ബഹുരാഷ്ട്ര ബഹുഭാഷ ബഹുമത എന്നിവയാണ് അതിനാൽ മൾട്ടി കൾച്ചറൽ ആളുകളുടെ ആരോഗ്യനിലയിലെ അന്തരം ഇല്ലാതാക്കുന്നതിനോ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനോ വേണ്ടി പ്രവർത്തിക്കുക നിയമനിർമ്മാണ അല്ലെങ്കിൽ റെഗുലേറ്ററി അക്രഡിറ്റേഷൻ മാൻഡേറ്റുകൾ കമ്മ്യൂണിറ്റി ഫോക്കസ് സേവനങ്ങൾ തൊഴിൽ സമ്മർദ്ദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് നൽകുന്നു സാംസ്കാരിക കഴിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു മൾട്ടി ഡൈമെൻഷണൽ കൺസ്ട്രക്റ്റ് എന്ന് വിളിക്കുന്നതെന്നും എല്ലാവരും ചർച്ച ചെയ്തത്പോലെ കാരണം ഇത് വ്യക്തിഗത സംഘടനയുടെയും സിസ്റ്റങ്ങളുടെയും തലത്തിലാണ് തീരുമാനിക്കുന്നത് അതിനാൽ ആളുകൾക്ക് മറ്റുള്ളവരുടെ സംസ്കാരത്തെക്കുറിച്ച് വ്യത്യസ്ത തലത്തിലുള്ള ധാരണ ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ആളുകളോട് ചോദിക്കാനും ഒരു ചെറിയ ക്വിസ് നടത്താനും കഴിയും മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നത് ഉദാഹരണമായി അമേരിക്കക്കാർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആചാരങ്ങളെക്കുറിച്ച് എന്താണ് അറിയാവുന്നത് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഏറ്റവും പ്രശസ്തമായ സാമൂഹിക ആചാരങ്ങൾ ഏതാണ് ചിലർ പറയുന്നു ഹോളി എന്ന് ചിലർ ദീപാവലി എന്ന് പറയുന്നു അതുപോലെ തന്നെ മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവയുമായി നന്നായി ഇടപെടാൻ കഴിയും അതിനാൽ ഇപ്പോൾ സംസ്കാരങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിൽ ബഹുരാഷ്ട്ര കമ്പനികൾ എം എൻ സി പ്രവർത്തിക്കുന്നു ഹോളിക്ക് അല്ലെങ്കിൽ ദീപാവലി ദിനത്തിൽ നിങ്ങൾ പ്രാദേശിക അവധി നൽകിയില്ലെങ്കിൽ ഒരു ഐബിഎം പോലുള്ള അമേരിക്കൻ കമ്പനിയെന്ന നിലയിൽ മറ്റ് രാജ്യങ്ങളുടെ സാംസ്കാരിക ധാർമ്മികതയിലേക്ക് അവർ ടാപ്പുചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയാണ് കഷ്ട്ടം അനുഭവിക്കുക ബഹു സാംസ്കാരിക ബഹുരാഷ്ട്ര കമ്പനികൾ പോലും ചില സാംസ്കാരിക സ്വഭാവം പ്രാവർത്തികമാക്കേണ്ടി വരും